ഈ ക്ലാസ്സിൽ നമ്മൾ J integral ലുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ആണ് ചർച്ചചെയ്യുക ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ J integral ഇന്റെ പ്രയോഗം കണ്ടെത്തുന്നു നോൺ ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിലെ ഉപയോഗപ്രദമായ പാരാമീറ്ററാണ് ഇത് ഈ ആശയങ്ങൾ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിനായി വിപുലീകരിച്ചിരിക്കുന്നു അതിനാൽ ഈ അധ്യായത്തിന്റെ ഭാഗമായി ഈ വശങ്ങളെല്ലാം നമ്മൾ കാണും നിങ്ങൾ ശരിക്കും നോക്കേണ്ടത് ക്രാക്ക് ടിപ്പിലെ പരിമിതമായ പ്ലാസ്റ്റിസിറ്റിയിൽ ആണ് LEFM ഇന്റെ ശ്രദ്ധ അതിലൂടെ നിങ്ങൾക്ക് പലതരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും അതിനാൽ ഒരു നേട്ടമുണ്ട് തകർന്ന ഘടന എങ്ങനെ പ്രവർത്തിക്കും എന്ന് നിങ്ങൾ മനസിലാക്കേണ്ട ചില ആവശ്യകതകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് ഉടൻ തന്നെ വിവിധ പ്രശ്നങ്ങളിൽ പ്രയോഗിക്കാൻ കഴിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്രത്യേകിച്ച് fatigue പ്രശ്നങ്ങൾക്ക് പ്രയോഗിച്ച ലോഡുകൾ സാധാരണയായി yield stress ഇന്റെ 30 ശതമാനത്തിൽ കുറവാണ് അതിനാൽ നിങ്ങൾ yield സമ്മർദ്ദത്തെക്കാൾ വളരെ താഴെയുള്ള ഘടനകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ ഉയർന്ന കരുത്തുറ്റ അലോയ്കളിലേക്ക് പരിമിതപ്പെടുത്തുന്നു LEFM മതിയായിരുന്നു ക്രാക്ക് ടിപ്പിൽ നിങ്ങൾക്ക് പരിമിതമായ പ്ലാസ്റ്റിറ്റി മാത്രമേ ഉള്ളൂ എന്നതിനാൽ ഇത് സാധ്യമായിരുന്നു ഡിസൈൻ ആവശ്യകതകൾ വർദ്ധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിശകലനം പര്യാപ്തമല്ലെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾക്ക് സ്ട്രക്ചറിന്റെയും ലോഡിംഗിന്റെയും വ്യത്യസ്ത സംയോജനം ഉള്ളപ്പോൾ അത് പ്ലാസ്റ്റിക് സോണിന്റെ വികാസത്തിലേക്ക് നയിച്ചേക്കാം അതിനാൽ പ്ലാസ്റ്റിക് സോൺ പരിമിതപ്പെടുത്തിയിട്ടില്ല അതിനാൽ അത്തരം ആപ്ലിക്കേഷനുകളിൽ ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് പര്യാപ്തമല്ല അതിനാൽ നിങ്ങൾ പുതിയ രീതിശാസ്ത്രത്തിനായി നോക്കണം എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് കണക്കാക്കണമെന്നായിരുന്നു ആഗ്രഹം എന്താണ് ബുദ്ധിമുട്ട് കർശനമായ പ്ലാസ്റ്റിറ്റി സിദ്ധാന്തം ഉൾക്കൊള്ളുന്ന ഒരു നേരിട്ടുള്ള സമീപനം അവ്യക്തമാണ് നോക്കൂ നിങ്ങൾ പ്ലാസ്റ്റിറ്റി literature നോക്കുകയാണെങ്കിൽ അത് വളരെ ഗണിതശാസ്ത്രപരമായി അധിഷ്ഠിതമാണ് പരമ്പരാഗത പ്രശ്നങ്ങളിൽ പോലും ആളുകൾ ഒരുതരം ഡിസൈൻ സമീപനമാണ് ഉപയോഗിക്കുന്നത് കാരണം ഏതെങ്കിലും പ്ലാസ്റ്റിറ്റി പ്രശ്നത്തിൽ ലോഡിംഗ് ചരിത്രത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് കർശനമായ plasticity സിദ്ധാന്തം വേണമെങ്കിൽ അത് വളരെ സൌകര്യപ്രദമല്ലാത്തതും ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നതുമാണ് ഇതര സമീപനങ്ങൾ എന്തൊക്കെയാണ് ആ സമീപനങ്ങളിൽ നിങ്ങൾ ശരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നിങ്ങൾ ഇതിനകം പഠിച്ചു എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിനായി ഈ ആശയങ്ങൾ എങ്ങനെ പരിഷ്കരിക്കാനാകും അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്നത് നമ്മൾ energy release rate നോക്കിയതുപോലെ നമ്മൾ energy release rate നോക്കും നമ്മൾ R curve നോക്കി നമ്മൾ ഇവിടെ J curve വും നോക്കും അതിനാൽ നിങ്ങൾ LEFM ൽ ചെയ്തതും തമ്മിൽ സമാനതയുണ്ട് അവിടെ നിങ്ങൾക്ക് ഫ്രാക്ചർ ടഫ്നെസ്സ് ഉണ്ടായിരുന്നു KIC നിർണയിക്കേണ്ടതുണ്ടായിരുന്നു അതുപോലെ ഇവിടെയും JIC നിർണ്ണയിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഇതിൽ സമാന്തരതയുണ്ട് എന്നാൽ നിങ്ങൾ ചില ഏകദേശ കണക്കുകളിലൂടെ കടന്നുപോകേണ്ടതുണ്ട് അതിനാൽ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് പ്രവേശിക്കുന്നതിനുമുമ്പ് J integral എന്താണെന്ന് മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കും അപ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത് നിങ്ങൾ literature നോക്കുകയാണെങ്കിൽ J integral J R റൈസിന് ക്രെഡിറ്റ് ചെയ്യപ്പെടും

ചരിത്രപരമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ COD അല്ലെങ്കിൽ CTOD എന്ന ആശയം J യേക്കാൾ മുമ്പുതന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് 1961ൽ വെൽസും കോട്രലും റിപ്പോർട്ടുചെയ്തു പ്ലാസ്റ്റിറ്റിയുടെ വലിയ മേഖലകൾ ഉൾപ്പെടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് കാരണം LEFM വളരെ ചെറിയ പ്ലാസ്റ്റിക് മേഖലയിൽ ഒതുങ്ങി അതിനാൽ ഉയർന്ന തലത്തിലുള്ള പ്ലാസ്റ്റിക് സോൺ ഉള്ള വസ്തുക്കളിലേക്ക് ഫ്രാക്ചർ മെക്കാനിക്സ് ആശയങ്ങൾ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ആളുകൾക്ക് അനുഭവപ്പെട്ടു അതിനാൽ അതിലെ ആദ്യകാല സമീപനങ്ങളിലൊന്ന് CTOD ആയിരുന്നു ഞാൻ പറഞ്ഞു ക്രാക്ക് ടിപ്പ് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ പദങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അത് തൽക്കാലം മാറ്റിവയ്ക്കും എന്നാൽ ഈ അധ്യായത്തിന്റെ ഭാഗമായി നാം തീർച്ചയായും കാണും J integral ചർച്ചചെയ്യുമ്പോൾ നിങ്ങൾക്ക് CTOD ഒഴിവാക്കാൻ കഴിയില്ല അതിനാൽ തൽക്കാലം നിങ്ങൾ അത് ക്രാക്ക് ടിപ്പ് ഓപ്പണിംഗ് ഡിസ്പ്ലേസ്മെന്റായി കണക്കാക്കുന്നു നമ്മൾ ആദ്യം J integral വികസിപ്പിക്കുകയും പിന്നീട് CTOD യിലേക്ക് മടങ്ങുകയും ചെയ്യും ചരിത്രപരമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ COD നേരത്തെ വികസിപ്പിച്ചതാണ് J integral പിന്നീട് വികസിച്ചു ഫ്രാക്ചർ മെക്കാനിക്സ് സാഹിത്യത്തിലെ ഏറ്റവും ഉദ്ധരിച്ച രണ്ട് പേപ്പറുകളിൽ ഒന്നാണ് റൈസിന്റെ കൃതി എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം അദ്ദേഹത്തിന്റെ സംഭാവന വളരെ അടിസ്ഥാനപരമാണ് എന്താണ് ആ പേപ്പർ 1968 ൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധമാണിത് 'എ പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രൽ ആൻഡ് ദി അപ്പ്രോക്സിമയ്റ്റ് അനാലിസിസ് ഓഫ് സ്ട്രെയിൻ ബൈ നോച്ചസ് ആൻഡ് ക്രാക്സ് ' 'A path independent integral and the approximate analysis of strain concentrations by notches and cracks' ഇത് 35 ാം വാല്യത്തിൽ ജേണൽ ഓഫ് അപ്ലൈഡ് മെക്കാനിക്സിൽ പ്രത്യക്ഷപ്പെട്ടു ഇത് എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന് ഏകദേശം ഒരു വഴിയൊരുക്കി എഞ്ചിനീയർമാർ എന്ന നിലയിൽ നമ്മൾ അത് അംഗീകരിക്കേണ്ടിവരും കൃത്യമായ പരിഹാരത്തിനായി നമ്മൾ ശ്രമിക്കും നിങ്ങൾക്ക് കൃത്യമായ പരിഹാരം നേടാൻ കഴിയുന്നില്ലെങ്കിൽ കുറഞ്ഞത് പ്രശ്നം ഏകദേശം പരിഹരിക്കുക അതിനാൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ച 2 പേപ്പറുകൾ ഉണ്ടെന്ന് ഞാൻ പരാമർശിച്ചു മറ്റ് പേപ്പർ എന്തായിരുന്നു ഇത് എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന് വഴിയൊരുക്കി മറ്റൊരു പേപ്പർ വ്യക്തമായും ഗ്രിഫിത്ത് എഴുതിയതാണ് ഇത് ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന് വഴിയൊരുക്കി 1921 ൽ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടന്റെ ഫിലോസഫിക്കൽ ട്രാൻസാക്ഷനിൽ അദ്ദേഹം ഇത് പ്രസിദ്ധീകരിച്ചു 1924 ൽ ഒരു കോൺഫറൻസിൽ പ്രസിദ്ധീകരിച്ച മറ്റൊരു പ്രബന്ധവും ഉണ്ടായിരുന്നു ഈ രണ്ട് പേപ്പറുകളും ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ അടിസ്ഥാനമായി കണക്കാക്കപ്പെട്ടു നിങ്ങൾ രചയിതാവിന്റെ പേരും ജേണലും വർഷവും എഴുതിയാലും നിങ്ങൾക്ക് അത് തിരയുവാൻ സാധിക്കും Eshelby's line Integrals ഇപ്പോൾ നമുക്ക് നോക്കാം എന്താണ് J integral J ഇന്റഗ്രലിലേക്ക് പ്രവേശിക്കുന്നതിനുമുമ്പ് ആളുകൾ ഇലാസ്തികതയിൽ പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രലുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു ടു ഡിമെൻഷണൽ പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ഒരു planar സാഹചര്യം പരിഗണിക്കുന്നു എനിക്ക് ഒരു പ്ലെയിൻ XY ഉണ്ട് നിങ്ങൾ ഒരു ക്ലോസ്ഡ് കോണ്ടൂർ എടുക്കുന്നു കോണ്ടൂർ ആകൃതി ഏകപക്ഷീയമായിരിക്കും ഒരു പ്രത്യേക പോയിന്റിലെ ക്ലോസ്ഡ് കോണ്ടൂർ ഔട്വാർഡ് നോർമലും ആ സമതലത്തിൽ പ്രവർത്തിക്കുന്ന സ്ട്രെസ് വെക്റ്ററും T n എന്ന് നൽകിയിട്ടുണ്ട് അതിനാൽ അതിർത്തി വ്യക്തമാക്കാം നമുക്ക് അതിർത്തിയിൽ ട്രാക്ഷൻ ഉണ്ടെങ്കിലും അതിർത്തിയിലെ ചില ഭാഗങ്ങളിൽ ട്രാക്ഷൻ ഉണ്ടാകാം Eshelby നിരവധി കോണ്ടൂർ ഇന്റഗ്രലുകൾ അവതരിപ്പിച്ചു അവയിലൊന്ന് ഇവിടെ എടുക്കുന്നു ഇത് ഇതുപോലുള്ള രൂപമെടുക്കുന്നു ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ ഇത് കോണ്ടൂർ ഏറ്റെടുക്കുന്ന ഒരു ലൈൻ ഇന്റഗ്രൽ ആണ് ഇതിന് രണ്ട് പ്രധാന പദങ്ങളുണ്ട് നിങ്ങൾക്കറിയാമോ ലിറ്ററേച്ചറിൽ അവർ അതിനെ W ഇൻടു dy എന്ന് ആക്കി നോക്കൂ സാധാരണയായി നമ്മൾ W നെ വർക്ക് ടണ് ഉമായി ബന്ധപ്പെടുത്തുന്നു ഈ ചിഹ്നം മാറ്റുന്നതാണ് നല്ലത് ഞാനും അത് കാണിക്കും ആദ്യത്തെ പദം അടിസ്ഥാനപരമായി സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം നൽകുന്നു രണ്ടാമത്തെ ടേം സ്ട്രെസ് വെക്റ്റർ നൽകുന്നു ഇതാണ് ജോലി നിങ്ങൾ ഇലാസ്തികത നോക്കുകയാണെങ്കിൽ സ്ട്രെയിൻ എനർജി മൈനസ് വർക്ക് ടണ് പൊട്ടൻഷ്യൽ ഊർജ്ജവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്നതെന്തെന്നാൽ ഈ പൊട്ടൻഷ്യൽ ഊർജ്ജത്തെ ക്രാക്ക് ലെങ്തുമായി differentiate ചെയ്യുന്നു അതിനാൽ energy release rate എന്ന് നമ്മൾ കണ്ടത് വർദ്ധിച്ചുവരുന്ന വിള്ളൽ വളർച്ചയ്ക്ക് ലഭ്യമായ ഊർജം വ്യത്യസ്ത രൂപത്തിൽ എഴുതപ്പെടുന്നു ഇത് നിരവധി ലളിതവൽക്കരണങ്ങൾക്ക് ശേഷം ഒരു ലൈൻ ഇന്റഗ്രൽ ആയി കാണപ്പെടുന്നു അതാണ് നിങ്ങൾ നോക്കേണ്ട രീതി രണ്ടാമത്തെ പദം നോക്കിയാൽ ഇത് സൂചക നൊട്ടേഷനിൽ എഴുതിയിരിക്കുന്നു അതിനാൽ T n i dow u കൊണ്ട് ഗുണിക്കുക ശേഷം dow x കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഇത് ആവർത്തിക്കും ഐൻസ്റ്റൈൻ സമ്മേഷൻ കൺവെൻഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് i ഉള്ളപ്പോൾ ഇത് ആവർത്തിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു നമ്മൾ ഒരു പ്ലാനർ സാഹചര്യം പരിഗണിക്കുന്നതിനാൽ ആദ്യ സൂചിക 1 ഉം രണ്ടാമത്തെ സൂചിക 2 ഉം നമ്മൾക്കു ലഭിക്കും അതിനാൽഇതിന് 2 നിബന്ധനകൾ ഉണ്ടായിരിക്കും നിങ്ങൾ ഇത് ശരിക്കും എന്താണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് Cauchy's സമവാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും tau i j ന് തുല്യമായ T n നമ്മൾ കോസൈൻ വെക്റ്റർ n ദിശ കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് ഒരു ദ്വിമാന സാഹചര്യമായി ശരിക്കും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് T 1 n T 2 n എന്നിവയിൽ ഓരോന്നിനും 2 നിബന്ധനകൾ ഉണ്ടാകും ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് T 1 n അല്ലെങ്കിൽ T X n T Y n എന്നിങ്ങനെ ഇടാം ആദ്യ പദം ഇന്റഗ്രൽ സിഗ്മ ij ഡെൽറ്റ എപ്സിലോൺ ij അല്ലാതെ മറ്റൊന്നുമല്ല ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് നമുക്ക് ഇത് വീണ്ടും പരിശോധിക്കാം ഇന്റഗ്രലിന്റെ അന്തിമരൂപമാണിത് നിങ്ങൾ ഒരു അടച്ച കോൺടൂർ എടുക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ 0 ലേക്ക് പോകുന്നു ഒടിവുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇത് എങ്ങനെ ബാധകമാകും ഇതാണ് നമ്മൾ നോക്കേണ്ടത് അത് റൈസ് ചെയ്തു ഞാൻ സൂചിപ്പിച്ചതുപോലെ U എന്ന ചിഹ്നം strain energy നോക്കുന്നതിന് ഞങ്ങൾ പതിവായതിനാൽ അത് ഇവിടെ പരാമർശിക്കപ്പെടുന്നു പുസ്തകങ്ങൾ കാണിക്കുന്നതുപോലെ ഇതുപോലെ ഈ രണ്ട് പദപ്രയോഗങ്ങളും കാണിക്കുമെന്ന് ഞാൻ കരുതി കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുമുമ്പ് ലീനിയർ ഇലാസ്റ്റിക്ക് solids വേണ്ടി നമ്മൾ വീണ്ടും പുനർനിർമിക്കുന്നു strain energy per unit volume ഇനിപ്പറയുന്ന രീതിയിൽ എഴുതുന്നു നിങ്ങൾക്കത് പ്രധാനമായും ഒരു വോള്യത്തിനായി ലഭിക്കുന്നു ഇത് ഇന്റഗ്രൽ ഇന്റെ പകുതി വോളിയം ആണ് sigma x epsilon xplus sigma y epsilon y plus sigma z epsilon z plus tau xy gamma xy plus tau yz gamma yz plus tau xz gamma xz multiplied by dV ഇത് സ്ട്രെസ് സ്ട്രെയിൻ അടിസ്ഥാനത്തിലാണ് പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ സ്ട്രെസ് സ്ട്രെയിൻ ബന്ധം ഉപയോഗിക്കുകയാണെങ്കിൽ സ്ട്രെസ് ഘടകങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് സ്ട്രെയിൻ എനർജി പ്രകടിപ്പിക്കാനും കഴിയും സ്ട്രെയിൻ എനർജി സ്ട്രെസ് ഘടകങ്ങളുടെ രൂപത്തിൽ ഇപ്രകാരം എഴുതാവുന്നതാണ് U equal to 1 by 2 integral over the volume1 by E into sigma x squared plus sigma y squared plus sigma z squared minus two nyu divided by Youngs modulus multiplied by sigma x sigma y plus sigma y sigma z plus sigma z sigma x plus 1 by G multiplied by tau xy squared plus tau yz whole squared plus tau zx whole squared whole multiplied by the dV നിങ്ങൾക്ക് ഇത് അറിയാവുന്ന പദപ്രയോഗങ്ങൾ ആണ് ഇത് ഈ ചർച്ചയുടെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്താണ് J ഇന്റഗ്രൽ J ഇന്റഗ്രൽ ഒരു വിള്ളൽ മുഖങ്ങളിൽ നിന്ന് ആരംഭിച്ച് എതിർ ഘടികാരദിശയിൽ പോയി മറ്റ് ക്രാക്ക് മുഖത്ത് നിൽക്കുന്നു J integral ഈ വിള്ളൽ മുഖം ലോഡുചെയ്തിട്ടില്ല എന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് ഒരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം ആണ് വിള്ളൽ മുഖം ലോഡുചെയ്യാത്ത പ്രശ്നങ്ങളിൽ J ഇന്റഗ്രൽ പ്രയോഗിക്കുന്നു ഇതിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് ഇന്റഗ്രൽ ഒരു പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് എന്നുള്ളതാണ് അതിനാൽ ഞാൻ ഇതുപോലുള്ള ഒരു പാത സ്വീകരിച്ചു A B C D എന്നിവയിലേക്ക് E F ലേക്ക് വന്ന് A യിൽ തിരികെ എത്തുക നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇത് Eshelby integral ആണ് Eshelby യുടെ ഫലം എന്താണ് പറയുന്നത് നിങ്ങൾ ഒരു ക്ലോസ്ഡ് കോൺടൂർ എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിയവയെല്ലാം 0 ആയിരിക്കണം ആക തുക ഞാൻ ഇത് വ്യത്യസ്ത രൂപരേഖകളായി എഴുതുന്നു കോണ്ടൂർ 1 ൽ CD പ്ലസ് AF ഉം നിങ്ങൾക്ക് ഒരു ഇന്റഗ്രൽ പ്ലസും പ്ലസ് കോണ്ടൂർ 2 ഉം ഉണ്ട് കോണ്ടൂർ CD ഇന്റഗ്രലിനും കോണ്ടൂർ FA ഇന്റഗ്രലിനും എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾക്കു തീർച്ചയായും അഭിപ്രായം പറയാൻ സാധിക്കും വ്യക്തതയ്ക്കായി V type ആകൃതിയിൽ ഉള്ള വിള്ളൽ കാണിക്കുന്നു വാസ്തവത്തിൽ ഇത് മിക്കവാറും ഒരു ലൈൻ പോലെയാണ് അതിനാൽ അതിനർത്ഥം dy എന്ന പദം 0 ആയിരിക്കും മറ്റൊരു വശംഇതൊരു സ്വതന്ത്ര ഉപരിതലമാണ് ഒരു സ്വതന്ത്ര ഉപരിതലത്തിൽ ട്രാക്ഷൻ 0 ആണ് അതിനാൽ ചുരുക്കത്തിൽ ഇന്റഗ്രൽ CD യും ഇന്റഗ്രൽ FA യും 0 ലേക്ക് പോകും കാരണങ്ങൾ ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നു ഇത് ഒരു സ്വതന്ത്ര ഉപരിതലമായതിനാൽ ട്രാക്ഷൻ 0 ആണ് ഇത് വളരെ മികച്ച ഒരു വിള്ളലാണ് അതിനാൽ dy equal to 0 ഇത് V ആകാരവുമായി തെറ്റിദ്ധരിക്കരുത് ഇത് ചിത്രീകരണത്തിനുള്ളതാണ് ഇത് ഇപ്രകാരം ആണ് അതിനാൽ ഇവ രണ്ടും ഇന്റഗ്രൽ 0 ലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ രസകരമായ ഒരു ഫലം ലഭിക്കും Integral over the contour 1 plus integral over the contour 2 equal to 0 അതിനാൽ ഇവ തുല്യവും വിപരീതവുമാണ് ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എതിർ ഘടികാരദിശയിൽ പോകുന്നു മറ്റൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഘടികാരദിശയിൽ വരുന്നു അതുകൊണ്ടാണ് ചിഹ്ന മാറ്റം എന്തുചെയ്യും കാണാം നമ്മൾ അനിയന്ത്രിതമായ ഒരു കോണ്ടൂർ എടുത്തു കോണ്ടൂർ ഏത് പാതയിലൂടെ സഞ്ചരിക്കണമെന്ന് നമ്മൾ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല അതിനാൽ നിങ്ങൾ വിള്ളൽ ഉപരിതലത്തിൽ നിന്ന് ഒരു ഇന്റഗ്രൽ എടുത്ത് മറ്റ് വിള്ളൽ ഉപരിതലത്തിൽ അവസാനിക്കുകയാണെങ്കിൽ ഇന്റഗ്രലിന്റെ മൂല്യം നിങ്ങൾ സ്വീകരിക്കുന്ന പാതയിൽ നിന്ന് സ്വതന്ത്രമാണ് എന്നതിന് ഇത് ഒരു തെളിവ് നൽകുന്നു അതിനാൽ J ഇന്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഫലം ആണ് അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് ലൈൻ കോണ്ടൂർ ദിശ വ്യത്യസ്തമാണെന്ന് നെഗറ്റീവ് ചിഹ്നം സൂചിപ്പിക്കുന്നു ഈ ഫലം സൂചിപ്പിക്കുന്നത് ഒരു വിള്ളൽ മുഖത്ത് നിന്ന് ആരംഭിച്ച് മറ്റൊരു വിള്ളൽ മുഖത്ത് അവസാനിക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ ലൈനിന്റെ വ്യാപ്തി മാറില്ല നമ്മൾ ഇതിനകം കണ്ടു ഈ സംയോജനത്തിനായി നിങ്ങൾ എഴുതുന്ന പദപ്രയോഗം എന്താണ് അത് ഇവിടെ എഴുതിയിട്ടില്ല നിങ്ങൾക്ക് രണ്ട് പദങ്ങളുണ്ട് ഒന്ന് സ്ട്രെയിൻ എനർജി മറ്റൊന്ന് ട്രാക്ഷൻ നമ്മൾഅത് പിന്നീട് കാണും J ഇന്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് ഫലം സൂചിപ്പിക്കുന്നു അത് ലീനിയർ ഇലാസ്തികത നന്നായി ഉപയോഗപ്പെടുത്തുന്നു നിങ്ങൾ ശരിക്കും finite element computation ലേക്ക് പോയാൽ അവിടെ ഈ പാത്ത് ഇൻഡിപെൻഡൻസ് ഉപയോഗിക്കുന്നു J ഇന്റഗ്രൽ കണ്ടെത്തുകഅതിൽ നിന്ന് stress intensity factor മൂല്യം നിർണ്ണയിക്കുന്നു J ഇന്റഗ്രലിന്റെ ഉപയോഗങ്ങളിലൊന്നാണ് അത് ചുരുക്കത്തിൽ J ഇന്റഗ്രൽ എന്താണ് എനിക്ക് two dimensional cracked body ഉണ്ട് ഞാൻ ഒരു വിള്ളൽ മുഖത്ത് നിന്ന് കോണ്ടൂർ ആരംഭിക്കുന്നു അത് മറ്റ് വിള്ളൽ മുഖത്തും അവസാനിക്കുന്നു ഒപ്പം വിള്ളൽ മുഖങ്ങൾ ലോഡുചെയ്തിട്ടില്ല And the integral of the type J equal to W into dy minus T n i dow u i divided by dow x into ds പുസ്തകങ്ങളിൽ നിങ്ങൾ കാണുന്നത് ഇങ്ങനെയാണ് ഈ രീതിയിൽ നന്നായി എഴുതാമെന്ന് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു W എന്നതിനുപകരം അതിനെ U dy മൈനസ് T n i ഇൻടു dow u i ബൈ dow x ഇൻടു ds എന്ന് ഇടുക ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ക്രാക്ക് ടിപ്പ് ഉൾക്കൊള്ളുന്ന ഒരു ലൈൻ ഇന്റഗ്രൽ പാത്ത് എടുക്കുക അതായത് പ്രാരംഭ അവസാന പോയിന്റുകൾ രണ്ട് ക്രാക്ക് മുഖങ്ങളിൽ കിടക്കുന്നു നോക്കൂ ഇത് ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ആണെങ്കിൽ ഇന്റഗ്രൽ വാല്യൂ 0 ലേക്ക് പോകും ഇവിടെ ഇത് ഒരു വിള്ളൽ മുഖം ആരംഭിക്കുന്നത് എതിർ ഘടികാരദിശയിൽ പോയി വിള്ളൽ ടിപ്പ് വലയം ചെയ്യുകയും മറ്റ് വിള്ളൽ മുഖത്ത് അവസാനിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഇതിന് കുറച്ച് പരിമിത മൂല്യമുണ്ട് ഈ പരിമിതമായ മൂല്യം J യുടെ മൂല്യമാണ് നിങ്ങൾക്കറിയാമോ ഈ പദപ്രയോഗം നിങ്ങൾ നന്നായി മനസിലാക്കാൻ നമ്മൾ അറിയപ്പെടുന്ന ഒരു പ്രശ്നം ഏറ്റെടുത്ത് energy വിലയിരുത്തേണ്ടതുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ പദങ്ങളുടെ ഇന്റർപ്ലേ എങ്ങനെ തിരിച്ചറിയാം എന്ന് കോണ്ടൂർ എന്തും ആകാം ഇതിന് ഒബ്ജക്റ്റിന്റെ അതിർത്തിയും പിന്തുടരാനാകും ക്രാക്ക് ടിപ്പ് ഉൾക്കൊള്ളുന്ന ഏത് കോണ്ടൂർ ഉം ഒരു വിള്ളൽ മുഖത്ത് നിന്ന് ആരംഭിച്ച് മറ്റ് ക്രാക്ക് മുഖത്ത് അവസാനിക്കുന്നു അത് മാത്രമാണ് ആവശ്യകത അതിനാൽ നമ്മൾ കൂടുതൽ കണക്കുകൂട്ടൽ നടത്തുന്നതിനുമുമ്പ് നമുക്ക് കുറച്ചു പദങ്ങൾ സൂക്ഷ്മമായി നോക്കാം സ്ട്രെയിൻ എനർജി പദം ഇന്റഗ്രൽ സിഗ്മ ij d epsilon ij എന്നാണ് നൽകിയിരിക്കുന്നത് ട്രാക്ഷൻ പദം ഇവിടെ വിപുലീകരിക്കുന്നു ഇത് T i dow u i dow x എന്നാണ് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇത് വിപുലീകരിക്കുമ്പോൾ രണ്ട് പദങ്ങളുണ്ട് T n x dow ux divided by dow x plus T n y dow uy divided by dow x ഈ പദങ്ങൾ ഓരോന്നും Cauchys ഫോർമുലയിൽ നിന്ന് ലഭിക്കും അതിനാൽ നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ quantities എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നിങ്ങൾക്കറിയാം ലൈൻ ഇന്റഗ്രൽ കണക്കുകൂട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധാപൂർവ്വം ചെയ്യണം എന്താണ് സംഭവിച്ചത് ആളുകൾ finite element calculation ഉപയോഗിക്കുന്നു അതിൽ സോഫ്റ്റ്വെയർ വളരെ നന്നായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു പാത്ത് തിരിച്ചറിയുകയും സോഫ്റ്റ്വെയർ J യുടെ മൂല്യം കണക്കാക്കുകയും നമ്പർ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അതിനാൽ പലതവണ വിദ്യാർത്ഥികൾക്ക് J ഇന്റഗ്രലിലെ പദങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല ഇത് സോഫ്റ്റ്വെയർ പരിപാലിക്കുന്നു ഇത് വളരെ മോശം സാഹചര്യമാണ് നിങ്ങൾ മനസിലാക്കേണ്ടതുണ്ട് സോഫ്റ്റ്വെയർ ഇത് എങ്ങനെ കണക്കാക്കുന്നു ഏത് തരത്തിലുള്ള പദപ്രയോഗമാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം ഇത് വളരെ പ്രധാനമാണ് അതിനാൽ ലീനിയർ ഇലാസ്തികതയുടെ ഭാഗമായി നിങ്ങൾ ഇതിനകം പരിഹരിച്ച ഒരു പ്രശ്നം നമ്മൾ ഏറ്റെടുക്കും നിങ്ങൾക്ക് ഇവിടെയുള്ളത് ഇരട്ട കാന്റിലിവർ ബീം മാതൃകയാണ് അതിൽ ഒരു വിള്ളൽ ഉണ്ട് കാന്റിലൈവർ ബീം മാതൃക കാണിച്ചിരിക്കുന്നതുപോലെ ലോഡ് P പ്രയോഗിച്ചു നോക്കൂ ഇലാസ്തികതയിലേക്ക് വരുന്ന നിമിഷം ഒരു distributed ലോഡിംഗ് ആയി നിങ്ങൾ അത് കാണിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു shear പ്രയോഗിക്കുന്നു നിങ്ങൾ വിശകലനപരമായി വിശകലനം ചെയ്യാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഇലാസ്തികത സിദ്ധാന്തത്തിൽ നമ്മൾ ഇതിനകം കണ്ടു കേവലം simply supported supports ഉപയോഗിച്ച് ഒരു uniformly distributed load of beam നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നമ്മൾ reactions ഒരു shear ആയി മാറ്റിസ്ഥാപിച്ചു ഇതേ സമാനത നാം ഇവിടെ ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഈ ലോഡ് ഒരു shear ആയി മാറ്റി സ്ഥാപിക്കുന്നു അതിനാൽ ഇതിലെ ട്രാക്ഷന്റെ integral shear ലോഡിന് തുല്യമായിരിക്കും അതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അതിനാൽ അത് മനസ്സിൽ വച്ചുകൊണ്ട് ഇത് ഒരു shear ആയി കാണിക്കുന്നു ഒരു പ്രത്യേക ഉയരം ഉണ്ട് h നമ്മുടെ എല്ലാ വിശകലനത്തിനും നമ്മൾ പരിഗണിക്കാൻ പോകുന്നു ബീമുകളുടെ നീളം ക്രാക്ക് ലെങ്ത് ആയി കണക്കാക്കുകയും കണക്കുകൂട്ടൽ നടത്തുകയും ചെയ്യുക J പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ ഇതിനകം മനസ്സിലാക്കി അതിനാൽ ലൈൻ ഇന്റഗ്രൽ സൌകര്യപ്രദമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു പാത തിരഞ്ഞെടുക്കുക അതിനാൽ നമ്മൾ ഒരു പാത തിരഞ്ഞെടുക്കും അവിടെ പലയിടത്തും കോണ്ടൂർ 0 ലേക്ക് പോകുന്നു അതിനാൽ കോണ്ടൂർ പൂജ്യമല്ലാത്ത സ്ഥലത്ത് മാത്രമേ നമ്മൾ കണക്കുകൂട്ടൽ നടത്താവൂ കോണ്ടൂർ ഇന്റഗ്രൽ പൂജ്യമല്ലാത്തതാണ് അതിനാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെസിമെൻിന്റെ അതിർത്തിയിലൂടെ ഒരു വിള്ളൽ മുഖത്ത് നിന്ന് മറ്റൊന്നിലേക്ക് ആരംഭിക്കുന്ന ഒരു പാത പരിഗണിക്കുക കാരണം നിങ്ങൾ അതിർത്തിയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ഒരു സ്വതന്ത്ര ഉപരിതലമാണ് അതിനാൽ ഇത് ഒരു സ്വതന്ത്ര ഉപരിതലമാകുമ്പോൾ ട്രാക്ഷൻ 0 ആണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ആ വഴി നിങ്ങളുടെ ഇന്റഗ്രൽ ലൈനിന്റെ കണക്കുകൂട്ടൽ കൂടുതൽ ലളിതമായിരിക്കും വ്യക്തതയ്ക്കായി പാത അതിർത്തിക്കുള്ളിൽ പച്ച വരയായി ചെറുതായി കാണിക്കുന്നു അതിനാൽ അതിന്റെ ഭംഗിയുള്ള ഒരു രേഖാചിത്രം തയ്യാറാക്കുക അതിനാൽ നേരായ അരികുകളുള്ള കോണുകളുള്ള ഒരു പാതയിലാണ് നമ്മൾ പോകുന്നത് അത് എല്ലാം അനുവദനീയമാണ് പാത തുടർച്ചയായിരിക്കണം എന്നതാണ് ഏക നിബന്ധന എനിക്ക് സൌകര്യപ്രദമായ ഏതു പാതയും തിരഞ്ഞെടുക്കാം ഇത് ക്രാക്ക് ടിപ്പ് വലയം ചെയ്യണം ഒരു വിള്ളൽ മുഖത്ത് നിന്ന് ആരംഭിച്ച് മറ്റൊരു വിള്ളൽ മുഖത്ത് അവസാനിക്കണം നോക്കൂ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പുതന്നെ ഫെയ്സ് CD DE EF എന്നിവയിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും ലൈൻ ഇന്റഗ്രൽ 0 ലേക്ക് പോകും FH BC എന്നീ സെഗ്മെന്റുകൾക്ക് മാത്രമായി നമ്മൾ ഇന്റഗ്രൽ ലൈൻ കണക്കാക്കണം നിങ്ങൾ ഒരു സ്വതന്ത്ര ഉപരിതലത്തിലേക്ക് നോക്കുന്നതിനുള്ള കാരണം ഞാൻ ഇതിനകം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ അത് ഫോർമുല ആക്കും ഉപരിതലങ്ങൾ CD DE EF എന്നിവ സ്വതന്ത്ര ഉപരിതലങ്ങളാണ് അതിനാൽ ട്രാക്ഷൻ 0 ആണ് അതിനാൽ രണ്ടാമത്തെ ടേം 0 ആണ് രണ്ടാമത്തെ ടേം നമ്മൾ ഇതിനകം വിപുലീകരിച്ച രൂപത്തിൽ കണ്ടു കാരണം ട്രാക്ഷൻ പൂജ്യമാണ് മുഴുവൻ പദം 0 ലേക്ക് പോകുന്നു കൂടാതെ U നിസ്സാരമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അതിനാൽ J യിലേക്ക് ഒരു സംഭാവനയുമില്ല ഇതിൽ നിങ്ങൾക്ക് 0 ന് തുല്യമായ dy ഉണ്ടായിരിക്കും ഇവിടെ സമ്മർദ്ദങ്ങളുടെ മൂല്യം വളരെ ചെറുതാണ് അതിനാൽ U നിസാരമാണ് അതിനാൽ FH BC വിഭാഗങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം സോളിഡ് മെക്കാനിക്സിൽ നിങ്ങൾ പലതും പഠിച്ചുവെന്ന് നിങ്ങൾക്കറിയാം Solid മെക്കാനിക്സ് പ്രോബ്ലെത്തിൽ bending shear ഉണ്ടെങ്കിൽ shear മൂലമുള്ള ഊർജ്ജത്തേക്കാൾ മികച്ച രീതിയിൽ bending energy നമ്മൾ തിരിച്ചറിയും slender ബീമുകളിലെ shear ഫലങ്ങളെ നമ്മൾ എല്ലായ്പ്പോഴും അവഗണിക്കും സമാന approximation നമ്മൾ ഇവിടെയും ചെയ്യും നമ്മൾ FH BC ഉപരിതലം എന്നിവ നോക്കുമ്പോൾഅവിടെshear മാത്രമേയുള്ളൂ അതിനാൽ shear കാരണം ഉണ്ടായ സ്ട്രെയിൻ എനർജി എന്തായാലും നമ്മൾ അത് അവഗണിക്കും അതിനാൽ അടിസ്ഥാനപരമായി എന്താണ് ട്രാക്ഷൻ ടേം വഴി J ഇന്റഗ്രലിനുള്ള സംഭാവന എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾ നോക്കിയാൽ ഈ ഉപരിതലത്തിൽ എനിക്ക് T n x ഇല്ല X ദിശയിൽ ഒരു ഘടകവുമില്ല Y ദിശയിൽ ഘടകം മാത്രമേയുള്ളൂ അതിനാൽ ഈ ട്രാക്ഷൻ പദം Ty dow uy divided by dow x എന്ന് റെഡ്യൂസ് ചെയ്യുന്നു കാന്റിലിവറിന്റെ രണ്ട് ഭാഗങ്ങൾക്കായി നിങ്ങൾ ഇത് ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ഇത് രണ്ട് മടങ്ങ് വരും അതിനാൽ നിങ്ങൾക്ക് ഇത് minus two times integral 0 to h Ty dow uy divided by dow x into ds എന്ന് കിട്ടും കാന്റിലിവറിന്റെ സ്വതന്ത്ര അറ്റത്ത് dow uy by dow x എന്താണെന്ന് നിങ്ങൾക്ക് ഓർമിക്കാമോ നിങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഒരു ഇരട്ട കാന്റിലിവർ മാതൃകയായി കാണുന്നു നിങ്ങളുടെ ബീമുകളുടെ വ്യതിചലനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് നിങ്ങൾ ഓർക്കുന്നു ബീമുകളുടെ വ്യതിചലനം നോക്കുമ്പോൾ അത് സ്വതന്ത്ര അറ്റത്തുള്ള ബീമിന്റെ ചരിവല്ലാതെ മറ്റൊന്നുമല്ല സ്വതന്ത്ര അറ്റത്ത് ഉണ്ടാകുന്ന ബീം slope എത്ര എന്ന് എഴുതാമോ End ലോഡുള്ള ഒരു കാന്റിലിവറിനുള്ള ടിപ്പ് വ്യതിചലനം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ പ്രസിദ്ധമായ ഒരു ഫോർമുല P L ക്യൂബ്ഡ് ബൈ 3 E I ആണ് ഇവിടെ L എന്നത് ബീം നീളമാണ് ഇവിടെ നമ്മൾ ബീമിന്റെ ദൈർഘ്യം a ആയി എടുക്കുന്നു നിങ്ങൾ ചരിവിലേക്ക് നോക്കുകയാണെങ്കിൽ അത് P L squared by 2 EI ആണ് ഈ പ്രശ്നത്തിനായി നിങ്ങൾ ഇത് പൊരുത്തപ്പെടുത്തുമ്പോൾ അത് P a squared by 2 E I എന്ന് ആണ് ആ 2 ഉം ഈ 2 ഉം റദ്ദാകും Moment of inertia നിങ്ങൾ എഴുതണം നിങ്ങൾക്ക് B എന്ന കനം ഉണ്ട് കൂടാതെ inertia term B h cubed by 12 ആയി നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നിങ്ങൾ ഇതെല്ലാം സബ്സ്റ്റിട്യൂട് ചെയ്യുമ്പോൾ ഇത് ഈ ഫോമിലേക്ക് എഴുതാൻ സാധിക്കും ഞാൻ ആ ഘട്ടങ്ങൾ ഒഴിവാക്കി അവസാന പദപ്രയോഗം ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് 12 P a squared divided by E B h cubed എന്നാകും നിങ്ങൾക്ക് 0 മുതൽ h വരെയുള്ള ഇന്റഗ്രൽ ഉണ്ട് Ty d s ഉണ്ട് ഞാൻ ഇതിനകം പറഞ്ഞിട്ടുണ്ട് P ഒരു shear ലോഡിംഗായി എഴുതുമ്പോഴും integral variation P മൂല്യത്തിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ നിങ്ങൾക്ക് ഇത് 0 മുതൽ h വരെ Ty d s അത് 0 മുതൽ h വരെ സമന്വയിപ്പിക്കുന്നതിന് തുല്യമാണ് Ty d y നിങ്ങൾക്ക് ഇത് P ബൈ B ആയി ലഭിക്കും ഇത് സബ്സ്റ്റിട്യൂട് ചെയ്യുമ്പോൾ J I equal to G I equal to 12 by E a squared by B squared multiplied by P squared by h cubed എന്ന് ആകും അതിനാൽ ഈ ഉദാഹരണത്തിലൂടെ നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങൾ ലീനിയർ ഇലാസ്തികതയാണ് നോക്കുന്നതെങ്കിൽ G എന്നറിയപ്പെടുന്ന എനർജി റിലീസ് റേറ്റ് ഒരു ലൈൻ ഇന്റഗ്രൽ വഴി ലഭിക്കും നിങ്ങൾക്ക് അത് J ആയി ലഭിച്ചു അതിനാൽ ലീനിയർ ഇലാസ്തികതയുടെ കാര്യത്തിൽ J ആൻഡ് G എന്നിവ സമാനമാണ് G യും K യും തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ട് അതിനാൽ J K എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണ് പരിമിതമായ മൂലക കണക്കുകൂട്ടലിൽ ആളുകൾ ചെയ്യുന്നത് അവർ ലൈൻ ഇന്റഗ്രൽ വിലയിരുത്തുകയും അതിൽ നിന്ന് സമ്മർദ്ദ തീവ്രത ഘടകം കണ്ടെത്തുകയും ചെയ്യുന്നു അത് J ഇന്റഗ്രലിന്റെ ഉപയോഗങ്ങളിലൊന്നാണ് പക്ഷേ അത് മാത്രമല്ല ഉപയോഗിക്കുന്നത് J യുടെ ഉപയോഗക്ഷമത എന്താണ് J ഇന്റഗ്രലിന്റെ പാത്ത് ഇൻഡിപെൻഡൻസ് അതിന്റെ മൂല്യം നിർണ്ണയിക്കാൻ നിരവധി അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു കാരണം എനിക്ക് വിലയിരുത്താൻ സുഖപ്രദമായ ഒരു പാത തിരഞ്ഞെടുക്കാനാകും സ്ട്രെസ് തീവ്രത ഘടകം K വിലയിരുത്തുന്നതിന് finite element solutions ഉപയോഗിക്കുന്നു ചില കേസുകളുടെ വിശകലന കണക്കുകൂട്ടലിനും finite element solutions ഉപയോഗിക്കുന്നു നമ്മൾ എന്തു ചെയ്തു നിങ്ങൾക്കറിയാവുന്ന ഒരു പ്രശ്നത്തിനായി നമ്മൾ ആദ്യം J വിലയിരുത്തി ലീനിയർ ഇലാസ്തികത പരിഹരിച്ചു expression എന്തു തന്നെയായാലും നമ്മൾ കണ്ടെത്തുന്നുനിങ്ങൾക്ക് ഒടുവിൽ J is same as G അത് energy release rate അല്ലാതെ മറ്റൊന്നുമല്ല Finite element calculations ഇൽ പാത്ത് ഇൻഡിപെൻഡൻസ് ഇന്റെ ഉപയോഗം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇന്റഗ്രൽ കുറച്ചു അകലത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും അത് ക്രാക്ക് ടിപ്പിൽ നിന്ന് കുറച്ചുകൂടി നീക്കംചെയ്യാം അപ്പോൾ ക്രാക്ക് ടിപ്പ് മേഖലയിലെ ഫീൽഡിന്റെ ബുദ്ധിമുട്ടുള്ളതും കൃത്യവുമായ കണക്കുകൂട്ടൽ ആവശ്യമില്ല നിങ്ങൾ ഒരു ബെഞ്ച് മാർക്ക് പ്രശ്നം എടുക്കുകയാണെങ്കിൽ J ഇന്റഗ്രൽ പ്രയോഗിക്കുക നിങ്ങൾക്ക് ഒരു ഗുണവും ലഭിക്കില്ല ബെഞ്ച് മാർക്ക് പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് വളരെ refined mesh ഉപയോഗിച്ച് പൂരിപ്പിക്കാൻ കഴിയും എനിക്ക് സങ്കീർണ്ണമായ ഒരു ഘടന പോലും ഉണ്ടെന്ന് കരുതുക ആ ഘടനയുടെ മോഡലിംഗ് ബുദ്ധിമുട്ടാണ് കൂടാതെ geometry വ്യത്യാസത്തിന് നിങ്ങൾക്ക് നിരവധി ഘടകങ്ങൾ ആവശ്യമാണ് കൃത്യമായ മെഷ് ക്രാക്ക് ടിപ്പിനോട് ചേർത്ത് സംരക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ലാഭിക്കാം ആ വീക്ഷണകോണിൽ നിന്ന് നിങ്ങൾ അത് കാണണം പ്രായോഗിക പ്രശ്നങ്ങളിൽ ക്രാക്ക് ടിപ്പിന് സമീപമുള്ള വളരെ കൃത്യമായ വിശകലനം നിങ്ങൾക്ക് ഒഴിവാക്കാനും ക്രാക്ക് ടിപ്പ് പാരാമീറ്ററുകൾ കണ്ടെത്താനും കഴിയുമെങ്കിൽ J ഉപയോഗപ്രദമാണ് അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് ക്രാക്ക് ടിപ്പിന് സമീപം വളരെ refined മെഷിന്റെ ആവശ്യകത ആവശ്യമായി വരില്ല അതിനാൽ സമ്മർദ്ദ തീവ്രത ഘടകം K കണക്കാക്കാൻ നിങ്ങൾക്ക് J യുടെ ഗുണം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാം നിങ്ങൾക്കറിയാമോ ഇത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ പറയുന്നു എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് J യുടെ പാത്ത് ഡിപെൻഡൻസ് ഉണ്ട് J പൊതുവായ പാതയെ ആശ്രയിച്ചിരിക്കുന്നു വിള്ളൽ മുഖങ്ങൾ ലോഡുചെയ്യുകയോ അല്ലെങ്കിൽ വിള്ളൽ വളയുകയോ ചെയ്താൽ അത് സംഭവിക്കുന്നു അതിനാൽ ഈ exceptions ഒഴികെ J ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം ഒരു ജാഗ്രതയും നൽകിയിട്ടുണ്ട് Finite element calculations ഇൽ നിങ്ങൾ ഒരു സൌകര്യപ്രദമായ പാതയിലൂടെ സഞ്ചരിച്ച് J യുടെ മൂല്യം വിലയിരുത്തുക നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് numerical മോഡലിന്റെ വർദ്ധിച്ച കാഠിന്യം crack പാരാമീറ്ററുകളെ കുറച്ചുകാണാൻ ഇടയാക്കില്ലെന്ന് ഉറപ്പാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അതിനാൽ ആളുകൾ reduced ഇന്റഗ്രേഷൻ ടെക്നിക് അപ്ലൈ ചെയ്യും അതിന്റെ ഒരു സംയോജനം അവർ ചെയ്യും ക്രാക്ക് ടിപ്പിൽ നിന്ന് അവർ Gauss പോയിന്റുകളിലൂടെ പോകും അതിനാൽ finite element solution ഡവലപ്പറിൽ നിന്ന് നിങ്ങൾ പാലിക്കേണ്ട ചില ശുപാർശകൾ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ J വിലയിരുത്തേണ്ടതുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത പാത തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പാത്ത് സ്വാതന്ത്ര്യം കാരണം ഇത് തീർച്ചയായും നിങ്ങൾക്ക് നൽകുന്നു എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്റഗ്രേഷൻ സ്കീമും നോക്കുക അതിനാൽ finite element approximations നിങ്ങളുടെ fracture കണക്കുകൂട്ടലുകളെ ബാധിക്കില്ല ഇപ്പോൾനിങ്ങൾക്കറിയാം ലീനിയർ ഇലാസ്തികതയിൽ J equal to G ആണെന്ന് J യുടെ ഗ്രാഫിക്കൽ വ്യാഖ്യാനവും നമുക്ക് നോക്കാം ലീനിയർ ഇലാസ്തികതയിൽ G എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്റെ കയ്യിൽ ഒരു സ്പെസിമെൻ ഉണ്ട് അതിന്റെ ക്രാക്ക് ലെങ്ത് a ആണ് മറ്റൊരു സ്പെസിമെൻ ഉണ്ട് അതിന്റെ ക്രാക്ക് ലെങ്ത് a പ്ലസ് ഡെൽറ്റ a എന്ന് ആണ് ഷേഡുള്ള ഭാഗം എന്തായാലും വിള്ളൽ വളരുന്നതിനുള്ള ആവശ്യമുള്ള ഊർജ്ജ ലഭ്യതയാണ് ഇതിനെ നിങ്ങൾ G എന്ന് വിളിക്കുന്നു അത് J ക്ക് തുല്യമാണ് നമ്മൾ നിരന്തരമായ ഡിസ്പ്ലേസ്മെന്റും നിരന്തരമായ ലോഡും പരിശോധിച്ചു ഇത് നിരന്തരമായ ഡിസ്പ്ലേസ്മെന്റ് ആണോ നിരന്തരമായ ലോഡാണോ എന്നും നമ്മൾ വാദിച്ചു വിള്ളൽ വളർച്ചയുടെ വർദ്ധിച്ച മൂല്യം കഴിയുന്നത്ര ചെറുതായിരിക്കുമ്പോൾ ഊർജ്ജ ലഭ്യത പരിധിയിൽ തുല്യമാണ് നിരന്തരമായ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ കാണിച്ചിരിക്കുന്നു ഇത് G യുടെ എനർജി ഇന്റെർപ്രെറ്റേഷൻ ആണ് linear elastic solid ഇൽ അത് J ക്ക് തുല്യമാണ് നോൺ ലീനിയർ ഇലാസ്റ്റിക് സോളിഡിനായി നിങ്ങൾക്ക് ഇത് വിപുലീകരിക്കാം ഇവിടെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ബന്ധം നോൺ ലീനിയർ ആണ് ഇത് നോൺ ലീനിയർ ആണ് ഈ രീതിയിൽ വിള്ളൽ ഒരു ചെറിയ അളവിൽ ഡെൽറ്റ a വ്യാപിക്കുന്നു O ഷേഡുള്ള ഈ പ്രദേശത്തെ J എന്ന് വ്യാഖ്യാനിക്കാം

അതിനാൽ J യുടെ പ്രയോജനം ലീനിയർ അല്ലാത്ത ഇലാസ്റ്റിക് സോളിഡുകൾക്കും ഇത് ബാധകമാണ് എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും line integral വിലയിരുത്താൻ കഴിയും 2 പുതിയ ഉപരിതലങ്ങളുടെ രൂപീകരണത്തിനുള്ള ലഭ്യതയല്ലാതെ മറ്റൊന്നുമല്ല ഇതെന്ന് പറയുക ലീനിയർ ഇലാസ്തികതയുടെ കാര്യത്തിൽ potential energy divided by da G ക്ക് തുല്യമാണ് J യുടെ സമാനമായ വ്യാഖ്യാനം രേഖീയമല്ലാത്ത ഇലാസ്തികതയിൽ സാധ്യമാണ് J യുടെ മൂല്യം ആണ് നോക്കൂ ഇപ്പോൾ ചോദ്യം ഞാൻ ഉന്നയിച്ചത് ലീനിയർ ഇലാസ്തികതയിൽ നിന്ന് ആണ് നമുക്ക് നോൺ ലീനിയർ ഇലാസ്തികതയിലേക്ക് പോകാം J ഉപയോഗപ്രദമാണ് എലാസ്റ്റോ പ്ലാസ്റ്റിക് വിശകലനത്തിനും J ഏകദേശം ഉപയോഗിക്കുന്നു അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രേഖീയമല്ലാത്ത ഇലാസ്തികതയും എലാസ്റ്റോ പ്ലാസ്റ്റിക് സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങൾ ഈ ആനിമേഷൻ ശ്രദ്ധാപൂർവ്വം കാണുക എനിക്ക് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉണ്ട് നോൺ ലീനിയർ ഇലാസ്റ്റിക് സോളിഡിനായി ഇത് കാണിക്കുന്നു ഇത് വരെ ഒരു പ്രശ്നവുമില്ല എനിക്ക് a ഉള്ളപ്പോൾ ഈ ഭാഗം ലീനിയർ ഇലാസ്റ്റിക് ആണ് ഈ ഭാഗം നോൺ ലീനിയർ ഇലാസ്റ്റിക് ആണ് ഞാൻ അൺലോഡുചെയ്യുന്നുവെന്ന് കരുതുക ഇത് ഒരു non linear ഇലാസ്റ്റിക് സോളിഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും അൺലോഡിംഗ് പാത്ത് അതേ വഴിയിലൂടെ കണ്ടെത്തും ലീനിയർ ഇലാസ്തികതയിൽ അത് ഒരു നേർരേഖയിൽ മുകളിലേക്കും താഴേക്കും പോകും നോൺ ലീനിയർ ഇലാസ്തികതയിൽ നിങ്ങൾ ഒരു കർവ് പിന്തുടരും ഞാൻ എലാസ്റ്റോ പ്ലാസ്റ്റിക് behavior ലേക്ക് പോകുന്നുവെന്ന് കരുതുക ഇലാസ്റ്റിക് പ്രദേശത്ത് നിന്ന് ഞാൻ പ്ലാസ്റ്റിക് മേഖലയിലേക്ക് പോയി ഞാൻ അൺലോഡുചെയ്യുമ്പോൾ അൺലോഡിംഗ് പാത വ്യത്യസ്തമാണ് ഇത് ലോഡിംഗ് പാതയ്ക്ക് സമാനമല്ല നിങ്ങൾ ഓർമ്മിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാന വിവരമാണിത് അതിന്റെ സ്വാധീനം എന്താണ് എനിക്ക് ഒരു നോൺ ലീനിയർ ഇലാസ്റ്റിക് കർവ് ഉള്ളപ്പോൾ strain ഇന്റെ ഓരോ മൂല്യത്തിനും നിങ്ങൾക്ക് stress ഇന്റെ ഒരു മൂല്യം മാത്രമേയുള്ളൂ ഇതിൽ ഒട്ടും പ്രയാസമില്ല ഇപ്പോൾ ഞാൻ അൺലോഡ് ചെയ്യാൻ പോകുന്നു ഇത് ഒരു പ്ലാസ്റ്റിക് അവസ്ഥയിലെത്തി ഞാൻ അൺലോഡുചെയ്യുന്നു അൺലോഡിംഗ് പാത വ്യത്യസ്തമാണ് അതിന്റെ സ്വാധീനം എന്താണ് ഞാൻ സ്ട്രെയിൻ മൂല്യം എടുക്കുമ്പോൾ രണ്ടു സ്ട്രെസ് വാല്യൂസ് സാധ്യമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാന നിരീക്ഷണമാണ് ഇവിടെയാണ് സങ്കീർണ്ണത വരുന്നത് ലോഡിംഗ് ചരിത്രത്തിന്റെ ട്രാക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ പ്ലാസ്റ്റിക് വിശകലനത്തിനായി പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ stress strain തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ല ലോഡിംഗ് ചരിത്രത്തിന്റെ ട്രാക്ക് നിങ്ങൾ സൂക്ഷിക്കണം ഞാൻ ലോഡുചെയ്ത പാതയിലാണ് ഞാൻ അൺലോഡുചെയ്ത പാതയിലായിരിക്കുമ്പോൾ അതേ strain മൂല്യത്തിനായി എനിക്ക് മറ്റൊരു stress ഉണ്ട് അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് എലാസ്റ്റോ പ്ലാസ്റ്റിക്കിൽ ലോഡിംഗ് അൺലോഡിംഗ് പാതകൾ വ്യത്യസ്തമാണ് ഒരു സ്ട്രെയിൻ മൂല്യത്തിന് രണ്ട് സ്ട്രെസ് മൂല്യങ്ങൾ നിലവിലുണ്ട് അതിനാൽ ലോഡിംഗ് ചരിത്രം നിങ്ങൾ ട്രാക്ക് ചെയ്യണം എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിനായി J ഇന്റഗ്രൽ വിപുലീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഏകദേശ കണക്കുകളും ഇവിടെയാണ് നോൺ ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിന് J തുല്യമാണ് G ക്ക് നിങ്ങൾക്ക് ഈ എനർജി വ്യാഖ്യാനവും നടത്താം സിസ്റ്റം യാഥാസ്ഥിതികമാണ് നിങ്ങൾ പ്ലാസ്റ്റിസിറ്റിയിലേക്ക് പോകുന്ന നിമിഷം സിസ്റ്റം യാഥാസ്ഥിതികമല്ല കുറച്ച് ഊർജ്ജം നഷ്ടപ്പെടുന്നു ഗ്രാഫിക്കൽ വ്യാഖ്യാനം എന്തായാലും നിങ്ങൾ കണ്ടു എല്ലാ ഊർജ്ജവും ക്രാക്ക് എക്സ്റ്റൻഷന് ലഭ്യമാകില്ല പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കുമ്പോൾ ചില ഊർജ്ജം നഷ്ടപ്പെടും Extension of NLEFM to EPFM അതിനാൽ ആളുകൾ ഒരുതരം ഏകദേശ കണക്ക് കൊണ്ടുവരണം നമുക്ക് നോക്കാംആളുകൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ നോൺ ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ നിന്ന് എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് ബിരുദം നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ വിപുലീകരണം പ്ലാസ്റ്റിസിറ്റിയുടെ രൂപഭേദം സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അൺലോഡുചെയ്യുന്നത് ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടു അതിനാൽ നിങ്ങൾ പറയുന്നു അൺലോഡിംഗ് ഒന്നും അനുവദിച്ചിട്ടില്ലെങ്കിൽ ഒരു എലാസ്റ്റോ പ്ലാസ്റ്റിക് വസ്തുവിന്റെയും ലീനിയർ അല്ലാത്ത ഇലാസ്റ്റിക് വസ്തുക്കളുടെയും പെരുമാറ്റം ഒരു ബാഹ്യ നിരീക്ഷകന് വേർതിരിച്ചറിയാൻ കഴിയില്ല non ലീനിയർ ഇലാസ്റ്റിക് ആയിരിക്കുമ്പോൾ ലോഡിംഗ് അൺലോഡിംഗ് പാതകൾ സമാനമാണ് എന്നാൽ എലാസ്റ്റോ പ്ലാസ്റ്റിക് വസ്തുക്കളിൽ അൺലോഡിംഗ് അനുവദിക്കുകയാണെങ്കിൽ അൺലോഡിംഗ് പാത വ്യത്യസ്തമാണ് ഇപ്പോൾ അൺലോഡുചെയ്യാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല ഒരു ബാഹ്യ നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് സമാനമായി തുടരും അതിൻറെ അർത്ഥമെന്തെന്നാൽ രൂപഭേദം വരുത്തുന്ന ഏതൊരു ബാഹ്യ അളവും non linear ഇലാസ്റ്റിക് വസ്തുക്കളിലും എലാസ്റ്റോ പ്ലാസ്റ്റിക് വസ്തുക്കളിലും തുല്യമായിരിക്കും എന്നാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് രണ്ട് മെറ്റീരിയലുകൾക്കുള്ളിൽ നടക്കുന്ന സംവിധാനങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് എന്നാൽ ബാഹ്യമായി ഒരു വ്യത്യാസവുമില്ല അതിനാൽ ഇതാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങൾ അൺലോഡുചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് അൺലോഡിംഗ് നടക്കുന്നില്ലെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം അത് പ്രായോഗിക സമീപനം ആണോ എന്ന് അന്വേഷിക്കണം ഏതൊക്കെ സാഹചര്യങ്ങളിൽ അൺലോഡിംഗ് സംഭവിക്കാനിടയില്ല അതിനാൽ J ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടോ ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രശ്നങ്ങളാണ് അൺലോഡിംഗ് സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ NLEFM ന്റെ ആശയങ്ങൾ EPFM ലേക്ക് വ്യാപിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമ്മർദ്ദ ഘടകങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം രൂപഭേദം വരുമ്പോൾ നിശ്ചിത അനുപാതത്തിൽ തുടരുക ഇതിനെ ആനുപാതിക ലോഡിംഗ് എന്ന് വിളിക്കുന്നു നമ്മൾ അത് വിശദമായി കാണും അതിനാൽ എല്ലാ ഫ്രാക്ചർ മെക്കാനിക്സ് സാഹിത്യത്തിലും നിങ്ങൾക്ക് ആനുപാതിക ലോഡിംഗ് കാണാൻ ഇടയാകും നിങ്ങൾ EPFM ഉമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ചർച്ചചെയ്യുമ്പോൾ എന്താണ് ആനുപാതികമായ ലോഡിംഗ് ആനുപാതിക ലോഡിംഗിലേക്ക് പോകുന്നതിനുമുമ്പ് നമ്മൾ ന്യായീകരിക്കേണ്ടതുണ്ട് ആനുപാതികമായ ലോഡിംഗിനായി നമ്മൾ എന്തിന് പോകണം പ്ലാസ്റ്റിറ്റി സിദ്ധാന്തം രണ്ട് വശങ്ങളുണ്ട് അതിലൊന്നാണ് പ്ലാസ്റ്റിറ്റിയുടെ deformation സിദ്ധാന്തം മറ്റൊന്ന് incremental theory പ്ലാസ്റ്റിസിറ്റി ആണ് Deformation theory of plasticity കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാണ് കാരണം ഗണിതശാസ്ത്രം വളരെ ലളിതമാണ് എന്നാൽ incremental theory of plasticity സിദ്ധാന്തം ഗണിതശാസ്ത്രം വളരെ സങ്കീർണമാണ് നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് പ്ലാസ്റ്റിറ്റിയുടെ രൂപഭേദം സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ഏത് പരിഹാരവും ആനുപാതിക ലോഡിംഗിന് കീഴിലുള്ള incremental അല്ലെങ്കിൽ flow സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പരിഹാരവുമായി യോജിക്കുന്നു അതിനാൽ നമുക്ക് ഒരു ന്യായീകരണം വേണം EPFM പ്ലാസ്റ്റിറ്റി സിദ്ധാന്തം കർശനമായി ഉപയോഗിക്കുന്നത് വളരെ വെല്ലുവിളിയാണെന്ന് നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ ഏകദേശ സമീപനത്തിനായി നമ്മൾ പോകേണ്ടതുണ്ട് അതിനാൽ പ്ലാസ്റ്റിറ്റി വിശകലനത്തിൽ പോലും പ്ലാസ്റ്റിറ്റിയുടെ രൂപഭേദം വരുത്തൽ സിദ്ധാന്തവും incremental പ്ലാസ്റ്റിറ്റിയുടെ സിദ്ധാന്തവും ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും പ്ലാസ്റ്റിറ്റിയുടെ രൂപഭേദം സിദ്ധാന്തം ഗണിതശാസ്ത്രപരമായി ലളിതമാണെന്ന് നമ്മൾ കണ്ടെത്തി ആനുപാതിക ലോഡിംഗ് ഉള്ളപ്പോൾ ഇത് ബാധകമാണ് നമ്മൾ പരോക്ഷമായി കണ്ടു അൺലോഡുചെയ്യുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് non ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് എന്ന ആശയം എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും അതിനാൽ കഥ അങ്ങനെയാണ് പോകുന്നത് ആനുപാതിക ലോഡിംഗിന് കീഴിൽ സമ്മർദ്ദ ഘടകങ്ങൾ പരസ്പരം നിശ്ചിത അനുപാതത്തിൽ മാറുന്നു ഇതിനായി പ്ലാസ്റ്റിക് സോണിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ അൺലോഡിംഗ് അനുവദനീയമല്ല അതൊരു പ്രധാന പോയിന്റാണ് നമ്മൾ ഇതിനകം കണ്ടു അൺലോഡുചെയ്യുമ്പോൾ എന്തുതരം സങ്കീർണ്ണതയാണ് ഉണ്ടാകുന്നത് എന്ന്

അതിനാൽ ആനുപാതിക ലോഡിംഗിൽ അൺലോഡിംഗ് അനുവദനീയമല്ലെന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു ഇതും നിങ്ങളുടെ മനസ്സിന്റെ പിന്നിൽ സൂക്ഷിക്കണം ആനുപാതിക ലോഡിംഗിന്റെ അവസ്ഥ പ്രായോഗികമായി കർശനമായി തൃപ്തിപ്പെടുന്നില്ല എഞ്ചിനീയർമാർ എന്ന നിലയിൽ നമ്മൾ പ്രശ്നത്തെ സമീപിക്കുന്നു നമ്മൾക്കു ഒരു ഏകദേശ പരിഹാരമെങ്കിലും വേണം അതിനാൽ അങ്ങനെയാണ് നമ്മൾ തുടരാൻ ആഗ്രഹിക്കുന്നത് താങ്കൾക്കും ഇതിന് ന്യായീകരണം ഉണ്ട് Proportional Loading നിങ്ങൾക്കറിയാമോ ഇന്റർമീഡിയറ്റ് സ്ട്രെംഗ് ലോഹങ്ങളിൽ വിള്ളൽ ആരംഭിക്കുന്നതിനപ്പുറം ഗണ്യമായ പ്ലാസ്റ്റിക് രൂപഭേദം നേരിടാൻ കഴിയും അതേസമയം വളരെ പരിമിതമായ അളവിൽ വിള്ളൽ വളർച്ച കാണിക്കുന്നു ഏതാണ്ട് ആനുപാതികമായ ലോഡിംഗ് സംഭവിക്കുന്നു വിള്ളൽ വളരുന്ന നിമിഷം അൺലോഡിംഗ് നടക്കുന്നു കാരണം രണ്ട് സ്വതന്ത്ര പ്രതലങ്ങളുടെ രൂപീകരണം ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് രണ്ട് സ്വതന്ത്ര ഉപരിതലങ്ങൾ ഉള്ളപ്പോൾ സമ്മർദ്ദം പുനർവിതരണം ചെയ്യേണ്ടതുണ്ട് ഗണ്യമായ പ്ലാസ്റ്റിക് രൂപഭേദം നേരിടാൻ കഴിയുന്ന ചില വസ്തുക്കൾ ഉണ്ട് അതിനാൽ പ്രധാനമായ കാര്യം വിള്ളൽ വളർച്ചയില്ല അതിനാൽ ഏകദേശം proportional ലോഡിംഗ് സാധ്യമാണ് നമ്മൾക്ക് ഏകദേശ രീതി അതാണ് ആനുപാതിക ലോഡിംഗ് എന്നത് പ്ലാസ്റ്റിറ്റിയുടെ വർദ്ധിച്ചുവരുന്നതും രൂപഭേദം വരുത്തുന്നതുമായ സിദ്ധാന്തങ്ങൾ അംഗീകരിക്കുന്നതിന് മതിയായ വ്യവസ്ഥയാണ് ആപേക്ഷിക ഗണിതശാസ്ത്ര ലാളിത്യം കാരണം മിക്കപ്പോഴും രൂപഭേദം സിദ്ധാന്തം ഉപയോഗിച്ചു നോക്കൂ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഗണിതശാസ്ത്രത്തെ കഴിയുന്നത്ര ലളിതവും എന്നാൽ പ്രതിഭാസങ്ങൾ പകർത്താൻ സമഗ്രവുമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നാം ഒരു ഏകദേശ കണക്ക് തയ്യാറാക്കേണ്ടതുണ്ട് ചില മെറ്റീരിയലുകളിൽ നിങ്ങൾക്ക് കൂടുതൽ പ്ലാസ്റ്റിക് deformation വളരെ കുറച്ച് വിള്ളൽ വളർച്ചയും ഉണ്ടെന്ന് കാണാൻ കഴിയും അപ്പോൾ ഇത് ബാധകമാണ് ഇവിടെ ആനുപാതിക ലോഡിംഗ് എന്ന പദാവലിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വിപുലീകരിക്കേണ്ടതുണ്ട് നിരവധി സ്റ്റേഷണറി പ്രശ്നങ്ങളിൽ വിള്ളൽ വളരുകയില്ല ഒരൊറ്റ ഏകീകൃതമായി പ്രയോഗിക്കുന്ന ലോഡിന് കീഴിൽ ലോഡിംഗ് അവസ്ഥ ആനുപാതികതയ്ക്ക് സമമാണ് ഓരോ മെറ്റീരിയൽ പോയിന്റിലും സമ്മർദ്ദവും സമ്മർദ്ദ ഘടകങ്ങളും monotonically ഒരു നിശ്ചിത അനുപാതത്തിലും വർദ്ധിക്കുന്നു എന്നാണ് ഇതിനർത്ഥം ഇങ്ങനെയാണ് നിങ്ങളുടെ approximation നിങ്ങൾ ന്യായീകരിക്കുന്നത് Finite elements പോലുള്ള സംഖ്യാ രീതികൾ ഉപയോഗിച്ച് നിരവധി പഠനങ്ങൾ ഈ നിർദ്ദേശത്തെ പിന്തുണച്ചിട്ടുണ്ട് നോക്കൂ മുഴുവൻ എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സ് ഇൽ നിങ്ങൾ proportional ലോഡിംഗ് നോക്കണം J യുടെ പ്രയോഗക്ഷമതയെ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കും അത് നിങ്ങൾ ഓർമ്മിക്കണം ഇത് കൃത്യമായ പ്രാതിനിധ്യമല്ല ഏകദേശ പരിഹാരം മതി എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് കഴിയുന്നിടത്തോളം കാലം ഏകദേശ കണക്കുകൾ പോലും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഒരു നുള്ള് ഉപ്പ് എടുക്കണം എലാസ്റ്റോ പ്ലാസ്റ്റിക് ഒടിവ് സ്വഭാവത്തിൽ സ്ഥിരമായ വിള്ളൽ വളർച്ച സാധാരണയായി നിരീക്ഷിക്കപ്പെടുന്നു ഒരു വിള്ളൽ വളർച്ചയുണ്ടെങ്കിൽ അൺലോഡിംഗ് നടക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ J യുടെ ആശയങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രയോഗിക്കാമെന്ന് നിങ്ങൾ കണ്ടെത്തണം അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് പ്രായോഗിക ആപ്ലിക്കേഷനുകൾക്കായുള്ള EPFM ക്രാക്കിന്റെ തുടക്കം വിവരിക്കുന്നതിനുള്ള കഴിവിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു വളർച്ചയും പരിമിതമായ യഥാർത്ഥ ക്രാക്ക് വളർച്ചയും കൈകാര്യം ചെയ്യുക തുടക്കം പ്രവചിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം കാലം നിങ്ങൾ സന്തുഷ്ടരാണ് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ താൽപ്പര്യമില്ല ചില വിള്ളൽ വളർച്ച നിങ്ങൾക്ക് ഏകദേശം വിശകലനം ചെയ്യാൻ സാധിച്ചേക്കാം ഒരു വിള്ളൽ വളർച്ചയുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ട് Unloading നടക്കുമ്പോൾ ഈ approximations സാധുവാകില്ല EPFM നിരവധി ആശയങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് വികസിപ്പിച്ച നിരവധി ആശയങ്ങളിൽ രണ്ടെണ്ണം പൊതുവായ സ്വീകാര്യത കണ്ടെത്തി അവ J ഇന്റഗ്രൽ CTOD അല്ലെങ്കിൽ COD എന്നിവയാണ് അതിനാൽ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് നമ്മൾ J ഇന്റഗ്രലിലേക്ക് നോക്കി അതിന്റെ path independence നമ്മൾ കണ്ടു Finite element solutions നിന്നുള്ള സമ്മർദ്ദ തീവ്രത ഘടകം കണക്കാക്കാൻ ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ ഈ path independence ഉപയോഗപ്പെടുത്തുന്നുവെന്ന് ഞാൻ പറഞ്ഞു J യുടെ ഗ്രാഫിക്കൽ വ്യാഖ്യാനവും നമ്മൾ കണ്ടു ലീനിയർ ഇലാസ്റ്റിക് സോളിഡുകളിലേതുപോലെ നോൺ ലീനിയർ ഇലാസ്റ്റിക് സോളിഡിലും J രണ്ട് പുതിയ വിള്ളൽ പ്രതലങ്ങളുടെ രൂപീകരണത്തിനുള്ള ഊർജ്ജ ലഭ്യതയ്ക്ക് തുല്യമാണ് പിന്നെ നമ്മൾ നോക്കി ഒരു എലാസ്റ്റോ പ്ലാസ്റ്റിക് മെറ്റീരിയൽ സ്വഭാവം എന്താണ് അൺലോഡിംഗ് നടക്കുന്ന നിമിഷം ഒരൊറ്റ strain മൂല്യത്തിനായി നമ്മൾ കണ്ടെത്തി രണ്ട് സ്ട്രെസ് മൂല്യങ്ങൾ ഉണ്ടാകാം ലോഡിംഗ് ചരിത്രത്തിന്റെ ട്രാക്ക് നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇതൊരു വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് എന്നാൽ non ലീനിയർ ഇലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ നിന്ന് എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിലേക്ക് നമ്മുടെ അറിവ് വ്യാപിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു ഏകദേശ കണക്ക് കൊണ്ടുവരുന്നതിലൂടെ അൺലോഡിംഗ് നടക്കാത്തിടത്തോളം കാലം എലാസ്റ്റോ പ്ലാസ്റ്റിക് ഫ്രാക്ചർ മെക്കാനിക്സിൽ ക്രാക്ക് initiation കൈകാര്യം ചെയ്യുന്നതിന് നിങ്ങൾക്ക് J യുടെ ആശയങ്ങൾ approximate ചെയ്യാൻ കഴിയും ഈ ക്ലാസ്സിൽ J യുടെ energy വ്യാഖ്യാനം നമ്മൾ കണ്ടു അടുത്ത ക്ലാസിലെ സ്ട്രെസ് പാരാമീറ്ററായി നമ്മൾ J യെ കാണും CTOD യുടെ അടിസ്ഥാനങ്ങളും നമ്മൾ കാണും